സ്പെസിമെൻ തിക്ക്നെസ്സിനു കുറുകെ പ്ലാസ്റ്റിക് സോണിന്റെ വ്യതിയാനവും അതുപോലെ തന്നെ സ്പെസിമെനിന്റെ മാതൃകയുടെ നീളത്തിൽ ക്രാക്ക് തുടരുമ്പോൾ എന്തുസംഭവിക്കും എന്നു നോക്കി ഈ സാഹചര്യം എങ്ങനെ സംഭവിക്കുന്നു നമുക്ക് അത് വീണ്ടും ഹ്രസ്വമായി പരിശോധിക്കാം സ്പെസിമെൻ തിക്ക്നെസ്സിനു കുറുകെ പ്ലാസ്റ്റിക് സോൺ ആകൃതിയുടെ വ്യത്യാസം ലോഡിംഗിന്റെ പുനർവിതരണം പരിഗണിച്ചില്ലെങ്കിൽ സ്പെസിമെൻ തിക്ക്നെസ്സിനു കുറുകെ പ്ലാസ്റ്റിക് സോണിന്റെ വ്യതിയാനം ഇനി പറയുന്ന രീതിയിൽ നൽകിയിട്ടുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഫ്രാക്ചർ മെക്കാനിക്സിന്റെ കാര്യത്തിൽ തിക്ക് സ്പെസിമെൻസിനു സർഫേസുകൾ പ്ലെയിൻ സ്ട്രെസ്സിലാണെന്ന് കണക്കാക്കപ്പെടുന്നു എന്നു നമ്മൾ ഇതിനകം ശ്രദ്ധിച്ചു വിശകലനത്തിലെ സൌകര്യത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ ഇന്റീരിയർ ഭാഗം പ്ലെയിൻ സ്ട്രെയിനിലാണ് അപ്പ്ലൈഡ് മെക്കാനിക്സ് കാഴ്ചപ്പാടിൽ ഈ നിർവചനം കർശനമായി ശരിയല്ല എന്നിരുന്നാലും ഇത് വളരെ ഉപയോഗപ്രദമാണ് നമ്മൾ ശ്രദ്ധിച്ചത് സ്പെസിമെന്റെ ആന്തരിക ഭാഗത്ത് ഈ രൂപത്തിൽ നിങ്ങൾ പ്ലാസ്റ്റിക് സോൺ കാണുന്നു അതിനെ ബട്ടർഫ്ലൈ ആകൃതിയിലുള്ള പ്ലാസ്റ്റിക് സോൺ എന്നും വിളിക്കുന്നു കൂടാതെ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് സോൺ പരീക്ഷണങ്ങളാൽ സ്ഥിരീകരിക്കപ്പെടുന്നു നമ്മൾ ഫോട്ടോലാസ്റ്റിക് ഫ്രിഞ്ച് പാറ്റേണുകളും നോക്കുന്നതിനാൽ ആകൃതി ഫോട്ടോലാസ്റ്റിക് ഫ്രിഞ്ച്കളുമായി വളരെ സാമ്യമുള്ളതാണ് എന്നു നിങ്ങൾക്ക് ശ്രദ്ധിക്കാനാകും നിങ്ങൾക്ക് അവിടെ ഫോട്ടോലാസ്റ്റിക് ഫ്രിഞ്ചസുകളിൽ ഒരു വിടവും ഉണ്ടാകില്ല എന്നുള്ളതാണ് വ്യത്യാസം അവിടെ ഫ്രിഞ്ചസുകൾ ക്രാക്ക് ടിപ്പിൽ ലയിക്കും അപ്പ്രോക്സിമേറ്റ് മോഡലിൽ നിന്ന് സർഫേസിൽ നൽകിയിരിക്കുന്നവ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു സ്പെസിമെൻ തിക്ക്നെസ്സിനു കുറുകെ പ്ലാസ്റ്റിക് സോണിന്റെ ആകൃതി മാറുമെന്ന് ഒരു വിഷ്വൽ ചിത്രം നൽകുക എന്നതാണ് ആശയം ഈ ഫലമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഞാൻ പുനർവിതരണം പരിഗണിക്കുമ്പോൾ ഈ രൂപം എങ്ങനെ വ്യത്യാസപ്പെടുന്നുവെന്ന് കരുതുക എന്താണ് സംഭവിക്കുന്നത് സർഫേസിൽ സോൺ ചുരുങ്ങുമ്പോൾ ഇന്റീരിയറിൽ സോൺ ചെറുതായി വികസിക്കുന്നു അത് നിങ്ങൾക്ക് ആനിമേഷനിൽ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും ഇത് വികസിക്കുകയും ഇത് ചെറിയ അളവിൽ ചുരുങ്ങുകയും ചെയ്യുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും പ്ലെയിൻ സ്ട്രെയിനിലും പ്ലെയിൻ സ്ട്രെസിലും ഉള്ള സ്ലിപ്പ് പ്ലെയിനുകൾ അടുത്തതായി നമ്മൾ നോക്കുന്നത് സ്പെസിമെൻ ലെങ്തിനൊപ്പം ഈ പ്ലാസ്റ്റിക് സോൺ എങ്ങനെ മാറുന്നു എന്നതാണ് ഇത് നമ്മൾ നോക്കി പരീക്ഷണങ്ങളിലൂടെ നിരീക്ഷിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു ഹാൻ റോസെൻഫീൽഡ് Han Rosenfield എന്നിവരുടെ കാര്യത്തിൽ നമ്മൾ ഇതിനകം കണ്ടു പ്ലാസ്റ്റിക് സോണിന്റെ ആകൃതി ഈ രീതിയിൽ നൽകിയിരിക്കുന്നു അതിനാൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സ്ഥലത്ത് ഫ്രാക്ചർ ഉണ്ടാകാനുള്ള സംവിധാനം എന്താണ് കുറച്ച് ദൂരം പോകുമ്പോൾ അത് മാറുന്നത് എങ്ങനെ എന്നുള്ളതുമാണ് ഇവിടെ സംഗ്രഹിക്കുന്നത് കുറഞ്ഞ സ്ട്രെസ് ലെവലിൽ ഒരു ഹിഞ്ച് തരം പ്ലാസ്റ്റിക് സോൺ നിരീക്ഷിക്കാം എന്നതാണ് അതിനാൽ അതാണ് ക്രാക്ക് ടിപ്പിന് സമീപം സംഭവിക്കുന്നത് ഉയർന്ന സ്ട്രെസ് നിലകളിൽ ക്രാക്ക് പ്ലെയിനിനു സമാന്തരമായിട്ടു ക്രാക്കിന് മുന്നിൽ പ്ലാസ്റ്റിക് സോൺ പ്രോജക്റ്റ് ചെയ്തു നിൽക്കുന്നു പരമാവധി ഷിയർ സ്ട്രെസ് തിരിച്ചറിയുന്നതിനുള്ള സംവിധാനം ഈ സ്ഥലത്തും അതിൽ നിന്ന് അകലത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതിനാൽ നമ്മൾ ക്രാക്ക് ടിപ്പിന് സമീപം ഒരു പ്ലെയിൻ കണക്കിൽ എടുത്തു അതിൽ നിന്നും പലതരത്തിലുള്ള ഐഡിയലൈസേഷൻസ് എന്തൊക്കെ എന്ന് നോക്കാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് പ്ലെയിൻ സ്ട്രെയിനിന്റെ തലം ആണ് പ്ലെയിൻ സ്ട്രെയിനിന്റെ കാര്യത്തിൽ മാക്സിമം ഷിയർ സ്ട്രെസ് xy എന്നിവയുടെ പ്ലെയിനിലാണ് പ്ലെയിനുകൾ ഇതുപോലെ കാണുന്നു നിങ്ങൾ പ്ലെയിൻ സ്ട്രെസ്സിലേക്ക് പോകുമ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസിന്റെ പ്ലെയിനുകൾ വ്യത്യസ്തമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇത് ശരിക്കും പ്രധാനമാണ് ക്രാക്കിന്റെ പ്രൊപ്പഗേഷനു കാരണമാകുന്ന മെക്കാനിസം എന്താണെന്ന് ഇത് നിർദ്ദേശിക്കുന്നു അതിനാൽ തുടക്കത്തിൽ ഇത് ടീയറിങ് ആക്ഷൻക്കൊണ്ട് പ്രചരിക്കും പിന്നീട് ഒരു ഷിയർ ലിപ്പ് നിങ്ങൾക്കു കാണാം നിങ്ങൾക്ക് ഇതുപോലുള്ള മാക്സിമം ഷിയർ സ്ട്രെസ് പ്ലെയിൻ ഉള്ളതിനാൽ ഒരു സ്പെസിമെന്റെ കാര്യത്തിൽ പ്ലെയിൻ സ്ലിപ്പ് ആകുന്നത് എങ്ങനെ സംഭവിക്കുന്നുവെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ കാണിച്ചിരിക്കുന്നതെന്തെന്നാൽ നിങ്ങൾക്ക് ഒരു തിക്ക് സ്പെസിമെൻ ഉണ്ട് എനിക്ക് ഇവിടെ ഒരു ക്രാക്ക് ഉണ്ട് മാക്സിമം ഷിയർ സ്ട്രെസ് പ്ലെയിൻ ഇതുപോലെയായതിനാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള മെറ്റീരിയൽ സ്ലിപ്പിംഗ് ഉണ്ടാകും വിഷ്വലൈസേഷൻ ആവശ്യത്തിനായി ഇത് വളരെ അതിശയോക്തി ഉള്ള ഒരു ചിത്രമാണ് ഇവിടെ ഒരു ചെറിയ ഭാഗത്ത് ഇത് കൂടുതൽ അതിശയോക്തി കാണിക്കുന്നു അതും നിങ്ങൾ കാണും അതിനാൽ നിങ്ങൾക്കു മനസ്സിലാകും നിങ്ങൾ ഇവിടെ കാണുന്നതിനോട് വളരെ സാമ്യമുള്ള രീതിയിലാണ് പ്ലെയിനുകൾ ഓറിയെന്റ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ പ്ലെയിനുകളുടെ സ്ലിപ്പിങ് ഉണ്ടാകും കഴിയുന്നത്ര വേഗത്തിൽ ഒരു സ്കെച്ച് നിർമ്മിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാ വീക്ഷണകോണുകളും പകർത്താൻ കഴിഞ്ഞേക്കില്ല എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് പ്ലെയിൻ തിരിച്ചറിയാൻ കഴിയും നിങ്ങൾ ഒരിക്കൽ മെറ്റീരിയലുകൾ കണക്കിടുമ്പോൾ നിരവധി ഘടകങ്ങൾ നിർണ്ണയിക്കുന്നു അതിനാൽ പ്ലെയിനുകൾ ഇങ്ങനെയായിരിക്കും മെറ്റീരിയൽ സ്ലിപ്പ് ആകും അത് വിപരീത ആരോകളാൽ സൂചിപ്പിച്ചിരിക്കുന്നു ഒരു ടു ഡൈമെൻഷനൽ ചിത്രംആയി കാണിച്ചിരിക്കുന്നു അതിനാൽസ്ലിപ്പിങ് കാരണംതുടക്കത്തിൽ ടീയറിങ് കാരണം ക്രാക്ക് നീളുന്നു അതിനാൽ ഇവിടെ സംഭവിക്കുന്നത് പ്ലെയിൻ സ്ട്രെയിനിന്റെ ഐഡിയലൈസേഷൻ മാക്സിമം ഷിയർ സ്ട്രെസ് പ്ലെയിനും ഒരു പ്രത്യേക രീതിയിൽ അധിഷ്ഠിതമാണെന്ന തിരിച്ചറിവും പ്ലെയിനുകൾ എങ്ങനെയെന്ന് നിർണ്ണയിക്കുന്നു അത് ഇതുപോലെയാണ് പ്ലെയിനുകൾ ഇതുപോലെയാണ് ടീയറിങ് കാരണം ക്രാക്ക് നീളുന്നു കുറഞ്ഞത് നിങ്ങൾ ഈ ടു ഡൈമെൻഷനൽ റെപ്രസെൻറ്റേഷന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കുന്നു ഡ്രോയിംഗിലെ നിങ്ങളുടെ കഴിവുകൾ പുറത്ത് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിയുന്നത്ര വേഗത്തിൽ വരയ്ക്കാനും കഴിയും നിങ്ങൾ പ്ലെയിൻ സ്ട്രെസ്സിലേക്ക് പോകുന്ന നിമിഷം സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ് എന്താണ് നമ്മൾ നോക്കുന്നത്ക്രാക്കിന് മുന്നിലുള്ള ഒരു പ്ലെയിനിനെ ആണ് നോക്കുന്നത് നിങ്ങൾ ഇവിടെ എന്താണ് കാണുന്നത് മാക്സിമം ഷിയർ സ്ട്രെസ്ന്റെ പ്ലെയിനുകൾ ഇതുപോലെ ഓറിയന്റഡ് ചെയ്തിരിക്കുകയാണ് ഇത് ശരിക്കും xy തലത്തിന്റെ പ്ലെയിനിനു പുറത്താണ് ഇതാണ് ഞാൻ പരാമർശിച്ചത് പ്ലെയിൻ സ്ട്രെസ്സിന്റെ കാര്യത്തിൽ എല്ലാം പ്ലെയിൻ അല്ല നമ്മൾ സ്ട്രെസ് ടെൻസറും സ്ട്രെയിൻ ടെൻസറും നോക്കി നിങ്ങൾ തിരിച്ചറിയണം മാക്സിമം ഷിയർ സ്ട്രെസ് ഔട്ട് ഓഫ് പ്ലെയിൻ ആണ് അത് ഇതുപോലെയാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു ക്രാക്ക് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും അതിനാൽ സ്ലിപ്പിംഗ് പ്രവർത്തനം എങ്ങനെ സംഭവിക്കുമെന്ന് ഇത് നിർണ്ണയിക്കുന്നു അത് ആനിമേഷനിൽ ചിത്രീകരിച്ചിരിക്കുന്നു തുടക്കത്തിൽ ഒരു ടു ഡൈമെൻഷനൽ സ്കെച്ച് ഇടുന്നു അതിനാൽ സ്ലിപ്പിങ് ഉണ്ടാകുന്നത് ഇതുപോലെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും പ്ലെയിൻ സ്ട്രെസ്സിന്റെ കാര്യത്തിൽ നിങ്ങൾ കണ്ടതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് സ്ലിപ്പിങ് പ്ലെയിൻ അതിനാൽ സ്ലിപ്പിംഗ് പ്രവർത്തനം നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഡയഗ്രം വരയ്ക്കാൻ പ്രയാസമാണ് എന്നാൽ ഈ രീതിയിൽ സ്ലിപ്പിംഗ് നടക്കുന്നുണ്ടോ എന്നതിന് ഒരു തെളിവും നമുക്ക് ആവശ്യമാണ് നമ്മൾ പരീക്ഷണാത്മക ഫലം കാണുകയും ഇതാണ് സംഭവിക്കുന്നതെന്ന് സ്വയം ബോധ്യപ്പെടുത്തുകയും വേണം അതിനാൽ ഞാൻ ഈ ആനിമേഷൻ വീണ്ടും ആവർത്തിക്കാം ക്രാക്കിന് മുന്നിലുള്ള ഒരു പ്ലെയിനിലേക്ക് നമ്മൾ നോക്കുകയാണ് മാക്സിമം ഷിയർ സ്ട്രെസ്ന്റെ പ്ലെയിനുകൾ വ്യത്യസ്തമാണെന്ന് ഞാൻ പറഞ്ഞു സ്ലിപ്പിംഗ് എങ്ങനെ നടക്കുമെന്ന് ഇത് നിർണ്ണയിക്കുന്നു ഈ ചിത്രം വരയ്ക്കാൻ എളുപ്പമാണ് ഒരു ത്രീ ഡൈമെൻഷനൽ ചിത്രത്തേക്കാൾ നിങ്ങൾ ഇത് വരയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇതുപോലെ സ്ലിപ്പിംഗ് നടക്കുന്നുണ്ട്അത് അതിശയോക്തിപരമാണ് പ്ലെയിൻ സ്ട്രെയിൻ പ്ലെയിൻ സ്ട്രെസ്സിലേക്ക് സ്പെസിമെന്റെ ദൈർഘ്യത്തിനൊപ്പം മാറുന്നു പരീക്ഷണാത്മക തെളിവുകൾ നിങ്ങൾക്കറിയാം യഥാർത്ഥ സ്പെസിമെന്റെ കാര്യത്തിൽ യഥാർത്ഥ സ്റ്റെപ്പുകൾ കാണില്ല എന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഫ്രാക്ചർഡ് സ്പെസിമെൻ കാണുമ്പോൾ നമ്മൾ ചർച്ച ചെയ്തതെല്ലാം അതിൽ കാണാം പ്രാരംഭ ഘട്ടത്തിൽ പ്രധാനമായും പ്ലെയിൻ സ്ട്രെയിനിൽ ക്രാക്ക് ടീയറിങ് കാരണം പ്രചരിക്കുന്നു ക്രാക്കിന് മുന്നിൽ നിങ്ങൾക്ക് ഒരു ഷിയർ ലിപ്പ് ഉണ്ടെന്നു കാണാം അതിനാൽ നിങ്ങൾക്ക് ഒരു പരീക്ഷണാത്മക തെളിവുണ്ട് കൂടാതെ റോസൻഫീൽഡും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും റിപ്പോർട്ടു ചെയ്ത വളരെ നല്ല ഫലങ്ങൾ ഉണ്ട് വാസ്തവത്തിൽപ്ലാസ്റ്റിക് സോണിനെ സർഫേസിലും തിക്ക് നെസ്സിന് മുകളിലും റിയർ സർഫേസിലും ഒരു ത്രീ ഡൈമെൻഷനൽ ചിത്രമായി എന്റെ വിദ്യാർത്ഥികൾ വരച്ചു അവർ ഈ ആനിമേഷൻ നന്നായി നൽകിയിട്ടുണ്ട് ക്രാക്കിന് മുന്നോടിയായി 45 ഡിഗ്രിയിൽ സ്ലിപ്പിങ് നടക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിനാൽ നമ്മൾ ചർച്ച ചെയ്തതെല്ലാം വെറും അനുമാനങ്ങൾ മാത്രമായിരുന്നില്ല ഇത് തീർച്ചയായും പരീക്ഷണങ്ങളാൽ നിരീക്ഷിക്കപ്പെടുന്നു ഇത് പ്രാതിനിധ്യത്തിന്റെ വളരെ നല്ല ഒരു ഭാഗമാണ് ഇത് പ്ലാസ്റ്റിക് സോൺ തിക്ക് നെസ്സിന് മുകളിലും ക്രാക്ക് ലെങ്തിന് ആസ്പദമായും എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന ഒരു റിയലിസ്റ്റിക് വികാരം നൽകുന്നുഈ രണ്ട് പ്രശ്നങ്ങളാണ് നമ്മൾ പരിശോധിച്ചത് പ്ലാസ്റ്റിക് സോണിന്റെ വലുപ്പം അടിസ്ഥാനമാക്കിയുള്ള ഫ്രാക്ചർ ടഫ്നെസ്സ് സ്പെസിമെന്റെ മിനിമം തിക്ക് നെസ്സ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് എന്തെന്നാൽ പ്ലാസ്റ്റിക് സോനിന്റെ വലുപ്പം നോക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു വശമാണ് rpയുടെ മൂല്യം എങ്ങനെ നേടാമെന്ന് നമ്മൾ പരിശോധിച്ചു അതാണ് പ്ലാസ്റ്റിക് സോണിന്റെ വലുപ്പം പ്ലാസ്റ്റിക് സോണിന്റെ വലുപ്പം B ബൈ 25 ൽ കുറവാണെങ്കിൽ B എന്നത് സ്പെസിമെൻ തിക്ക് നെസ്സ് ആണെങ്കിൽ പ്ലാസ്റ്റിക് സോണിന്റെ വലുപ്പം വളരെ ചെറുതാണ് നിങ്ങൾക്ക് ഒരു പ്ലെയിൻ സ്ട്രെയിൻ സാഹചര്യം നിലവിലുണ്ടെന്ന് അനുമാനിക്കാം പ്ലാസ്റ്റിക് സോണിന്റെ വലുപ്പം B ബൈ 25 ന്റെ 4 മടങ്ങ് കൂടുതലാണെന്ന് കരുതുകഎങ്കിൽ അത് പ്ലെയിൻ സ്ട്രെസ് സാഹചര്യമാണെന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം നിങ്ങൾക്കറിയാം ഇതൊക്കെ പ്ലെയിൻ സ്ട്രെസ്സിനെയും പ്ലെയിൻ സ്ട്രെയ്നിനെയും എങ്ങനെ മോഡലാക്കാമെന്ന് നോക്കുന്നതിനുള്ള വ്യത്യസ്ത വഴികളാണ് കാരണം ഫ്രാക്ചർ മെക്കാനിക്സിൽ പ്ലെയിൻ സ്ട്രെസ്സിനും പ്ലെയിൻ സ്ട്രെയ്നിനും അയഞ്ഞ നിർവചനങ്ങൾ ആണുള്ളത് പ്രശ്നം വളരെ സങ്കീർണ്ണമാണ് ഇവിടെ പ്രധാനം എന്താണ് പ്ലാസ്റ്റിക് സോൺ വലുപ്പം മനസ്സിലാക്കുന്നതിൽ നിന്ന് ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റ് സ്പെസിമെന്റെ ഏറ്റവും കുറഞ്ഞ തിക്ക് നെസ്സ് കണക്കാക്കാനും നമുക്ക് കഴിയും അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വശമാണ് അത് ക്രാക്ക് ടിപ്പിലെ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ മോഡലിംഗ് ചെയ്യുന്നതിന്റെ ഫലമാണ് നമ്മൾ എന്തു ചെയ്യണം KIC യുടെ ഒരു പരീക്ഷണാത്മക നിർണ്ണയത്തിനായി നിങ്ങൾ പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ നിലനിർത്തണം പ്ലെയിൻ സ്ട്രെയിൻ അവസ്ഥ നിലവിലുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു പ്ലാസ്റ്റിക് സോണിന്റെ വലുപ്പം വളരെ ചെറുതായതിനാൽ സ്പെസിമെൻ തിക്ക് നെസ്സ് ഉചിതമായി എടുക്കുന്നതിലൂടെയാണിത് സാധ്യമാകുന്നത് സ്പെസിമെൻ തിക്ക് നെസ്സ് പ്ലാസ്റ്റിക് സോണിന്റെ വലുപ്പത്തിന്റെ 25 ഇരട്ടിയിലധികം ആയിരിക്കണം എന്നാണ് ശുപാർശ ചെയ്യുന്നത് ഒരു എക്സ്പ്രഷൻ രൂപത്തിൽ ഇത് മാറുന്നത് B ഗ്രെയ്റ്റർ ദാൻ ഓർ ഈക്വൽ ടു 25 ഗുണം 1 ബൈ 3 പൈ ഗുണം KIC ബൈ സിഗ്മ ys ഹോൾ സ്ക്വായെർഡ് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഇത് ഇർവിന്റെ മോഡലിലെ പ്ലെയിൻ സ്ട്രെയിനിലെ പ്ലാസ്റ്റിക് സോൺ വലുപ്പമായിരുന്നു നിങ്ങൾ ലളിതമാക്കുകയാണെങ്കിൽ എനിക്ക് ഇത് 2 5 തവണ എന്ന് എഴുതാം കാരണം 3 പൈ യെ എനിക്ക് 10 ആയി എടുക്കാം അതിനാൽ B ഗ്രെയ്റ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 5 മടങ്ങ് KIC ബൈ സിഗ്മ ys ഹോൾ സ്ക്വായെർഡ് എന്ന് എനിക്ക് എഴുതാം നിങ്ങൾക്കറിയാമോ ഇത് വളരെ പ്രധാനമുള്ളതും ശ്രദ്ധിക്കപ്പെട്ടതുമായ ഒരു ഫലമാണ് വാസ്തവത്തിൽ ആളുകൾ നിരവധി സ്പെസിമെനുകൾ പരീക്ഷിച്ചു പരീക്ഷണ അനുഭവത്തിൽ നിന്ന് സ്പെസിമെൻ തിക്ക് നെസ്സിന്റെ സൈസ് പ്ലാസ്റ്റിക് സോണിന്റെ വലുപ്പത്തിന്റെ 25 ഇരട്ടിയായിരിക്കണം എന്ന് അവർ മനസ്സിലാക്കി മെക്കാനിക്സ് കാഴ്ചപ്പാടിൽ നിന്നും നിങ്ങൾക്ക് അത് ലഭിക്കും ഫ്രാക്ചർ ടെസ്റ്റിംഗ് ആദ്യകാല ശ്രമങ്ങൾ നിങ്ങൾക്കറിയാമോ നമ്മൾ ഏറ്റെടുക്കുന്ന അടുത്ത വിഷയം ഫ്രാക്ചർ ടെസ്റ്റിംഗ് ആണ് വാസ്തവത്തിൽ കോഴ്സിന്റെ വളരെ ഡ്രൈ ആയിട്ടുള്ള ഏര്യ ടെസ്റ്റിംഗ് ആണ് കാരണം നിങ്ങൾ കോഡുകൾ നോക്കുകയും വ്യവസ്ഥകൾ പാലിക്കുകയുംവേണം ആ വ്യവസ്ഥകൾ വളരെ വിശദമാണ് അതിനാൽഞാൻ കോഴ്സിന്റെ ഈ ഭാഗം കഴിയുന്നത്ര രസകരമാക്കാൻ ശ്രമിക്കും ആദ്യകാല ശ്രമങ്ങൾ നോക്കുന്നത് നമുക്ക് അഭികാമ്യമാണ് 1953 നും 1956 നും ഇടയിൽ വാഷിംഗ്ടണിലെ നേവൽ റിസർച്ച് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ അക്രിലിക് ഷീറ്റ് ചൂടാക്കി നീട്ടുന്നത് വസ്തുക്കളുടെ ഫാക്ചർ റെസിസ്റ്റൻസിനെ വളരെയധികം മെച്ചപ്പെടുത്തിയെന്ന് തെളിയിച്ചു അതിനാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫാക്ചർ ടെസ്റ്റിംഗ് ആദ്യം നടത്തിയത് അക്രിലിക് ഷീറ്റിൽ ആണ് ഇത് 1953 ലും 1956 ലും ആണ് സംഭവിക്കുന്നത് അവർ ഫാക്ചർ ടഫ്നെസ്സ് അളന്നു അതിനാൽ ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ആദ്യത്തെ വിജയകരമായ അപ്ലിക്കേഷൻ ഒരു എയർ ക്രാഫ്റ്റ് ഗ്ലേസിംഗ് മെറ്റീരിയലായി ഉപയോഗിക്കുന്ന ഹോട്ട് സ്ട്രെച്ചഡ് അക്രിലിക്കിന്റെ ഫാക്ചർ ടഫ്നെസ്സ് അളക്കുക എന്നതാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശാസ്ത്രത്തിലെ നിരവധി വികസനങ്ങളും സൈനിക അപ്ലിക്കേഷനുകളെ കേന്ദ്രീകരിച്ചിരുന്നു അതിനാൽ സൈനിക സർക്കിളുകളിൽ ചർച്ച ചെയ്യുന്ന ആദ്യ സവിശേഷതകളും മാനദണ്ഡങ്ങളും നിങ്ങൾക്ക് ലഭിക്കും സിവിലിയൻ ആപ്ലിക്കേഷനായി ഇത് ഉപയോഗിക്കാമെന്ന് അവർ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് ഓപ്പൺ ലിറ്റ്റേച്ചറിൽ പുറത്തുവരും ഇത്തരത്തിലുള്ള ടെസ്റ്റിനും ഇതുതന്നെ സംഭവിച്ചു അതിനാൽ സമൂഹത്തിന് ഇത് ഉപയോഗപ്രദമാകാൻ നിങ്ങൾ വളരെ ബോധമുള്ളവരായിരിക്കണം എന്നാൽ സൈന്യത്തിന് പിന്തുണ നൽകാൻ ശാസ്ത്രജ്ഞരോട് ആവശ്യപ്പെട്ടു അതിനാൽ നിങ്ങൾ ഇത് മനസ്സിൽ സൂക്ഷിക്കണം അതിനാൽ ഒരു സൈനിക സവിശേഷതയിൽ ക്രോഡീകരിച്ച ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് വികസിപ്പിച്ചെടുത്തു ഓർക്കുക ഇത് 1953 ലും 1956 ലും ആയിരുന്നു ഞാൻ സൂചിപ്പിച്ചിരുന്നു വിവിധതരം സ്പെസിമെൻസിനുള്ള സ്ട്രെസ് ഇന്റർസിറ്റി ഫാക്ടർനെക്കുറിച്ച് നമ്മൾ ചർച്ചചെയ്യുമ്പോൾ സെന്റർ ക്രാക്ക്ഡ് ടെൻഷൻ സ്പെസിമെൻ ആണ് ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിനായി ഉപയോഗിച്ചത് സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ സൈദ്ധാന്തികമായി കണക്കാക്കാൻ ഇർവിന്റെ ടാൻജെന്റ് ഫോർമുല Irwin's Tangent Formula ഉപയോഗിച്ചതായും ഞാൻ പരാമർശിച്ചു അക്രിലിക് ഷീറ്റിനുള്ള ഫ്രാക്ചർ ടഫ്നെസ്സ് കണ്ടെത്താൻ ഇത് ഉപയോഗിച്ചു അതിനാൽ ആളുകൾ പ്രോസിഡ് ചെയ്തത് ഇങ്ങനെയാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് വളരെ സങ്കീർണ്ണമായ സ്പെസിമെൻ ജ്യോമെറ്ററിയും ബൌണ്ടറി കോലൊകേഷൻ സൊല്യൂഷനും ഉണ്ട് ഇത് സ്ട്രെസ് ഇന്റർസിറ്റി ഫാക്ടറുകളുടെ കൃത്യമായ മൂല്യങ്ങൾ നൽകുന്നു അക്രിലിക് ഷീറ്റുകളിലെ പരിശോധനകൾക്ക് ശേഷം തിൻ പ്ലേറ്റുകൾക്കുള്ള ലോഹങ്ങളെക്കുറിച്ച് ശാസ്ത്ര സമൂഹം പരിശോധന നടത്തി തിക്ക് പ്ലേറ്റുകൾ അവർ ശരിക്കും പരീക്ഷിച്ചിട്ടില്ല പ്ലാസ്റ്റിക് സോണിന്റെ മോഡലിംഗിന്റെ ഒരു എക്സ്ട്രാപോളേഷനായി നമ്മൾ ചർച്ച ചെയ്തിരുന്നുവെങ്കിലുംപ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ നിലനിർത്താൻ എനിക്ക് ഉചിതമായ സ്പെസിമെൻ തിക്ക് നെസ്സ് ആവശ്യമാണ് ഈ അറിവ് ലഭ്യമല്ല എക്സ്പീരിയൻസ് അടിസ്ഥാനമാക്കിയാണ് ഇത് വികസിച്ചത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിൽ പരിശോധനകൾ തിൻ പ്ലേറ്റുകളിലായിരുന്നു എന്നിരുന്നാലും പ്ലേറ്റിന്റെ തിക്ക് നെസ്സ് ഫ്രാക്ചർ സ്വഭാവത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയതായി ഗവേഷകർ ശ്രദ്ധിച്ചു തിക്ക് സെക്ഷൻസിനു അവയുടെ തിൻ എതിരാളികളേക്കാൾ ഫ്രാക്ചർ ടഫ്നെസ്സ് കുറവാണെന്ന് 1960 ൽ ഇർവിൻ തെളിയിച്ചു ഇപ്പോൾ ഇത് ഒരു സാധാരണ അറിവാണ് ഫ്രാക്ചർ മെക്കാനിക്സിൽ ഒരു കോഴ്സ് ചെയ്യുന്ന ഏതൊരാൾക്കും ഫ്രാക്ചർ ടഫ്നെസ്സ് എന്നത് സ്പെസിമെൻ തിക്ക് നെസ്സിന്റെ ഫങ്ഷൻ ആണെന്ന് അറിയാം നിങ്ങൾ പ്രാരംഭ ഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ഫലത്തിൽ എത്തിയത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് അവബോധപൂർവ്വം അവർ നിർദ്ദേശിക്കാൻ ശ്രമിച്ചു എന്തെങ്കിലും ഒരു മെറ്റീരിയൽ പ്രോപ്പെർട്ടി ആണെന്ന് നിങ്ങൾ പറയുമ്പോൾ അത് ഒരു മെറ്റീരിയൽ പ്രോപ്പെർട്ടി പോലെ പെരുമാറണം പ്ലെയിൻ സ്ട്രെയിൻ അവസ്ഥകൾ തൃപ്തിപ്പെടുമ്പോൾ മാത്രമാണ് അത് ഒരു മെറ്റീരിയൽ പ്രോപ്പെർട്ടി പോലെ പ്രവർത്തിക്കുന്നത് എന്ന് അവർ കണ്ടെത്തിയത് കൂടാതെ ഈ പ്രതിഭാസത്തെക്കുറിച്ച് മുമ്പ് വിശദീകരണമൊന്നും ലഭ്യമല്ലായിരുന്നുവെന്നും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും പ്ലെയിൻ സ്ട്രെയിനിന്റെ ആഘാതവും പ്ലാസ്റ്റിക് സോണിന്റെ പ്രാധാന്യം കുറയുന്നതും ഇർവിൻ ശരിയായി ആരോപിച്ചു ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ഒരു സുഹൃത്താണ് പ്ലാസ്റ്റിക് സോൺ എന്ന് ഞാൻ നേരത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പ്ലെയിൻ സ്ട്രെസ്സിന്റെ കാര്യത്തിൽ പ്ലാസ്റ്റിക് സോണിന്റെ വലുപ്പം പ്ലെയിൻ സ്ട്രെയിനിനേക്കാൾ വളരെ വലുതാണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അതിനാൽ പരീക്ഷണങ്ങൾ വെളിപ്പെടുത്തിയത് പ്ലെയിൻ സ്ട്രെയിനിന്റെ കാര്യത്തിൽ ഫ്രാക്ചർ ടഫ്നെസ്സ് നിങ്ങൾക്ക് ഉള്ള പ്ലെയിൻ സ്ട്രെസ്സിനേക്കാൾ വളരെ താഴെയാണ് ഇർവിൻ ഒരു അവബോധജന്യമായ ധാരണ നൽകി പിന്നീട് കൂടുതൽ പരീക്ഷണങ്ങളും ചർച്ചകളും അദ്ദേഹത്തിന്റെ ഫലം സ്ഥിരീകരിച്ചു നിങ്ങൾ ഇത് പരിശോധിച്ചുകഴിഞ്ഞാൽ നമ്മൾ മാനദണ്ഡങ്ങൾ നോക്കുന്നതിനായി പോകണം ഇത് ഒരു ദാർശനിക ചോദ്യമാണ് ഒരു മാനദണ്ഡത്തിന്റെ ഉദ്ദേശ്യം എന്താണ് ഫ്രാക്ചർ ടെസ്റ്റിംഗിന് ഈ ഉദ്ദേശ്യം തൃപ്തികരമാണോ എന്ന് നാം കാണേണ്ടതുണ്ട് വ്യത്യസ്തമായ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് അവശേഷിക്കുന്നത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു മാനദണ്ഡത്തിന്റെ ഉദ്ദേശ്യം എന്താണ് സ്വതന്ത്ര ടെസ്റ്റിംഗ് ലബോറട്ടറികൾക്കിടയിൽ അളക്കുന്ന അളവ് പുനർനിർമ്മിക്കാൻ കഴിയുമെന്ന് ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉറപ്പാക്കണം ഇത് വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് നിരവധി പാരാമീറ്ററുകൾ ഉണ്ടാകാം സ്വീകാര്യമായ ഒരു പരിധിവരെ ടെസ്റ്റ് ഓപ്പറേറ്റർ ടെസ്റ്റ് നടത്തുന്ന ലബോറട്ടറി ടെസ്റ്റ് ഉപകരണങ്ങളുടെ നിർദ്ദിഷ്ട ബ്രാൻഡ് എന്നിവയിൽ നിന്ന് ടെസ്റ്റ് ഫലങ്ങൾ സ്വതന്ത്രമായിരിക്കണം ഇതും വളരെ പ്രധാനമാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഫ്രാക്ചർ ടെസ്റ്റ് നടത്തണമെങ്കിൽ ഒരു ഉറവിടത്തിൽ നിന്ന് മാത്രം മെഷീൻ വാങ്ങണം എന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരു കുത്തക ഉണ്ടാകാൻ പാടില്ല അതിനാൽ ഞാൻ ഒരു മാനദണ്ഡം വികസിപ്പിക്കുമ്പോൾ നടപടിക്രമങ്ങൾ നന്നായി സ്ഥാപിക്കണം ഈ ചെറിയ വ്യതിയാനങ്ങൾക്കെല്ലാം ഇത് കാരണമാകുമെങ്കിലും ഒരു നിശ്ചിത അളവിലുള്ള അന്തിമഫലം കൃത്യതയോടെ നൽകുന്നു അതിനാൽ ഇത് ഒരു മാനദണ്ഡമാണ് ഒരു മാനദണ്ഡത്തിന്റെ ഉദ്ദേശ്യം എന്താണ് കൂടുതൽ ആവശ്യപ്പെടുന്ന മറ്റൊരു മാനദണ്ഡം ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയെ അളക്കാൻ പിന്നീടുള്ള ആപ്ലിക്കേഷനുകളിൽ ഡിസൈൻ വേരിയബിൾനെ ഉപയോഗിക്കാൻ കഴിയും വാസ്തവത്തിൽ ഫ്രാക്ചർ മെക്കാനിക്സ് സ്റ്റാൻഡേർഡ്സിൽ ഇത് വളരെ തൃപ്തികരമാണ് കാരണം നമ്മൾ ഫ്രാക്ചർ ടഫ്നെസ്സ് അളക്കാൻ പോകുന്നു അതാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അളക്കുന്ന ക്വൺഡിറ്റിക്കു ഒരു ഫിസിക്കൽ വ്യാഖ്യാനമുണ്ട് അത് അളക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് ഫിസിക്കൽ ആപ്പ്ളിക്കേഷനുകളിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും അതിനാൽഫ്രാക്ചർ ഇൻസ്റ്റബിലിറ്റി സംഭവിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടി വരുമ്പോൾ നമ്മൾ എല്ലാവരും ഫ്രാക്ചർ ടഫ്നെസ്സ് എന്ന പാരാമീറ്റർ ഉപയോഗിക്കും എന്നു നമുക്ക് മനസ്സിലായി അതിനാൽ ഫ്രാക്ചർ മെക്കാനിക്സിലെ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ അമേരിക്കൻ സൊസൈറ്റി ഓഫ് ടെസ്റ്റിംഗ് മെറ്റീരിയൽസ് സൃഷ്ടിച്ച ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗ് മറ്റ് ഫിസിക്കൽ ആപ്ലിക്കേഷനുകൾക്കായി ഉപയോഗിക്കണമെന്ന ആവശ്യകത പാരാമീറ്റർ ആവശ്യം തൃപ്തിപ്പെടുത്തുന്നു കൂടാതെ സ്റ്റാൻഡേർഡ്സ് വികസിപ്പിക്കുന്നതിൽ ആളുകൾ എങ്ങനെ മുന്നോട്ടുപോയി എന്ന് നോക്കുകയാണെങ്കിൽ ഹൈ സ്ട്രെങ്ത് ഷീറ്റ് മെറ്റീരിയലുകളുടെ ഫ്രാക്ചർ ടെസ്റ്റിംഗിനുള്ള ASTM പ്രത്യേക സമിതി കാരണം അവ എയ്റോസ്പെയ്സ് ആപ്ലിക്കേഷനുകൾക്കായി ഉപയോഗിച്ചിരുന്നു ദേശീയ പ്രാധാന്യമുള്ള മെറ്റൽ ഫൈയ്ലുവേഴ്സിനെക്കുറിച്ച് അന്വേഷിക്കാൻ 1959 ൽ USAയിലെ ഗവൺമെന്റായ ഫെഡറൽ ഗവണ്മെന്റ് ആണ് അതിനെ കമ്മീഷൻ ചെയ്തത് ചെലവ് കണ്ടെത്തുകയും അത്തരം പരാജയങ്ങൾ തടയാൻ അവർക്ക് കഴിയുമോയെന്നതു ലഘൂകരിക്കുകയും ചെയ്യുക എന്നതാണ് ആശയം അതിനാൽ നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കുകയും എല്ലാ പ്രാക്റ്റീസുകളിലും സ്റ്റാൻഡേർഡ് പാലിക്കുകയും വേണം ചരിത്രം നോക്കുകയാണെങ്കിൽ 1959 ൽ സ്ഥാപിതമായ ASTM സ്പെഷ്യൽ കമ്മിറ്റിയുടെ ഒരു വളർച്ചയാണ് ഇപ്പോൾ E 08 എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ASTM കമ്മിറ്റി E 24 ഏതൊരു വികസനത്തിനും ചരിത്രം അറിയുന്നത് വളരെ പ്രധാനമാണ് നിങ്ങൾ സാഹിത്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 1987 ലെ ബർസൂം ഫ്രാക്ചർ ഗവേഷണത്തിന്റെ സംക്ഷിപ്ത ചരിത്രം നൽകി അത് പ്രാരംഭ സീരീസ് ഓഫ് സ്റ്റാൻഡേർഡ്സിലേക്ക് നയിച്ചു ആളുകൾ ആവർത്തന ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ അവരുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ അവർ സ്റ്റാൻഡേർഡ്സിൽ എത്തിചേർന്നു നിങ്ങൾ സ്റ്റാൻഡേർഡ് ചരിത്രം നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ്സ് പിൻവലിക്കാം സ്റ്റാൻഡേർഡ്സ് വീണ്ടും അംഗീകരിക്കാം സ്റ്റാൻഡേർഡ്സ് പരിഷ്ക്കരിക്കും ചെയ്യാം അതിനാൽ അതിന് ഒരു ജീവിതമുണ്ട് ഒരു സ്റ്റാൻഡേർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഒരു സ്റ്റാൻഡേർഡ് ആയിത്തീരുന്നു ഏത് സമയത്തും ഒരു സ്റ്റാൻഡേർഡായി തന്നെ തുടരണം എന്നും ഇല്ല ആളുകൾ കൂടുതൽ കൂടുതൽ എക്സ്പീരിയൻസുകൾ നൽകുന്നതിനനുസരിച്ച് ആവശ്യമെങ്കിൽ ആ ധാരണകൾ ഉൾപ്പെടുത്തി സ്റ്റാൻഡേർഡ്സ് പോലും പിൻവലിക്കപ്പെടുന്നു അതിനാൽ നിങ്ങൾ അത് മനസ്സിൽ സൂക്ഷിക്കണം ലളിതമായ ഒരു ടെൻഷൻ ടെസ്റ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫ്രാക്ചർ ടഫ്നെസ്സ് വിലയിരുത്തുന്നതിനുള്ള പരിശോധനയിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു കൂടാതെ നിരവധി ആവശ്യകതകൾ പാലിക്കേണ്ടതുണ്ട് ഇതാണ് അടിസ്ഥാന വ്യത്യാസം നമ്മൾ ഇതിനകം ശ്രദ്ധിച്ചത് ഫ്രാക്ചർ ടഫ്നെസ്സ് എന്നത് സ്പെസിമെൻ തിക്ക് നെസ്സിന്റെ ഒരു ഫങ്ക്ഷൻ ആണെന്നും പ്ലെയിൻ സ്ട്രെസ്സ് പ്ലെയിൻ സ്ട്രെയിൻ കേസുകൾക്ക് ഉചിതമായ മൂല്യങ്ങൾ ഉപയോഗിക്കണമെന്നുമാണ് അതിനാൽ ഇത് തിക്ക് നെസ്സിന്റെ ഒരു ഫങ്ക്ഷൻ ആണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ പ്രാഥമികമായി എനിക്ക് പ്ലെയിൻ സ്ട്രെസ്സിലായ ഒരു സ്ട്രക്ച്ചർ ഉണ്ടെങ്കിൽ ഞാൻ പ്ലെയിൻ സ്ട്രെസ്സ് സാഹചര്യത്തിന് ബാധകമായ ഫ്രാക്ചർ ടഫ്നെസ്സ് മാത്രമേ ഉപയോഗിക്കാവൂ ഞാൻ പ്ലെയിൻ സ്ട്രെയിനിനായി ഉദ്ദേശിക്കുന്ന ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് ധാരാളം ക്യൂഷൻ ഉണ്ടായിരിക്കും അത് എന്റെ സ്ട്രക്ച്ചറിനെ അമിതമായി രൂപകൽപന ചെയ്തതു പോലെ ആകും അതിനാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കണം ഇത് പറയുമ്പോൾ പ്ലെയിൻ സ്ട്രെയിനിലും പ്ലെയിൻ സ്ട്രെസ്സിലും ഉണ്ടാകുന്ന ഫ്രാക്ചർ ടഫ്നെസ്സ് അളക്കാനും നിങ്ങൾക്ക് കഴിയണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിനുള്ള നടപടിക്രമങ്ങൾ നന്നായി വികസിപ്പിച്ചെടുക്കുകയും പരിശോധന നടത്താനുള്ള കോഡുകളും നിലവിലുണ്ട് അതാണ് ഈ അധ്യായത്തിന്റെ പ്രധാന ഭാഗത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത് പ്ലെയിൻ സ്ട്രെസ്സ് പരിശോധനയ്ക്കുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒരു രസകരമായ വിവരം ശ്രദ്ധിക്കേണ്ടതുണ്ട് ടഫ്നെസ്സിന്റെ മൂല്യം പാനൽ വിഡ്ത്തിന്റെ ഒരു ഫങ്ക്ഷൻ ആണ് ചിത്രത്തിലേക്ക് വളരെയധികം പാരാമീറ്ററുകൾ വരുന്നു ഞാൻ വ്യത്യസ്ത വിഡ്തുകളുള്ള പാനലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്രാക്ചർ ടഫ്നെസ്സും മാറുന്നു അതിനാൽ ഇത് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് അതിനാൽ ഇത് നിങ്ങളുടെ ടെസ്റ്റിംഗ് അൽപ്പം ബുദ്ധിമുട്ടുള്ളതാക്കും സ്പെസിമെൻ തിക്ക് നെസ്സിന്റെ ഫങ്ക്ഷൻ ആയ ഫ്രാക്ചർ ടഫ്നെസ്സ് നിങ്ങൾക്കു കാണാം സ്പെസിമെൻ തിക്ക് നെസ്സിന്റെ ഒരു ഫങ്ക്ഷൻ ആണ് ഫ്രാക്ചർ ടഫ്നെസ്സ് എന്ന് X അക്ഷത്തിൽ നിങ്ങൾക്ക് മില്ലിമീറ്ററിൽ തിക്ക് നെസ്സ് ഉണ്ട് Y അക്ഷത്തിൽ ഇത് KC ആയി ഇടുന്നു നോക്കൂ മനസിലാക്കുക നമ്മൾ KC ആയി ഇടുകയാണെങ്കിൽ ഇത് ഒരു ക്രിട്ടിക്കൽ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ ആണ് നമ്മൾ ആ മോഡ് I ഒഴിവാക്കുകയാണ് മോഡ് I പ്രബലമായത് കൊണ്ട് ആളുകൾ അത് വിശകലനം ചെയ്ത നിങ്ങൾക്ക് ഇതുപോലുള്ള വ്യതിയാനമുണ്ട് അതിനാൽ ഇത് 120 MPA റൂട്ട് മീറ്ററിൽ സ്ഥിരപ്പെടുന്നു അതേസമയം സ്റ്റീലിനായി അത് 200 MPA റൂട്ട് മീറ്റർവരെ ഉയരും നിങ്ങൾക്ക് ഒരു അലുമിനിയം അലോയ്ക്ക് സമാനമായ ഗ്രാഫും ഉണ്ട് ഇത് 7075 t6 t65 ആണ് ഇവിടെ വീണ്ടും കാണുന്ന ട്രെൻഡ് പ്ലെയിൻ സ്ട്രെസ് മുതൽ പ്ലെയിൻ സ്ട്രെയിൻ വരെയാണ് മൂല്യത്തിൽ ഒരു കുറവുണ്ടാകുകയും അത് സ്റ്റെബിലൈസ് ചെയ്യുകയും ചെയ്യുന്നു ഇത് ഏകദേശം 35 MPa റൂട്ട് മീറ്ററാണ് ഇത് പ്ലെയിൻ സ്ട്രെസ്സിന്റെ കാര്യത്തിൽ 70 MPa റൂട്ട് മീറ്റർ വരെ ഉയർന്നേക്കാം ആരെങ്കിലും ജാഗരൂകരാണെങ്കിൽ ഒരു അലുമിനിയം അലോയിക്ക് ഉള്ള തിക്ക് നെസ്സ് വ്യത്യസ്തവുംസ്റ്റീൽ ഡാറ്റയ്ക്ക് ഉള്ള തിക്ക് നെസ്സ് വ്യത്യസ്തവുമാണ് 50 മില്ലിമീറ്റർ കനം ഉള്ളപ്പോൾ ഇത് ഒരു പ്ലെയിൻ സ്ട്രെയിൻ ആണെന്ന് നിങ്ങൾ പറയുന്നു അതേസമയം 15 മില്ലിമീറ്റർ തിക്ക് നെസ്സ് പോലും ഇവിടെ പ്ലെയിൻ സ്ട്രെസ്സിന്റെ അവസ്ഥയിലാണ് ഇത് ഒരു പ്രധാന പ്രശ്നമാണ് അതിനർത്ഥം ആരെങ്കിലും ഒരു പുതിയ മെറ്റീരിയൽ കൊണ്ടുവന്നാൽ ഒരു പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റ് നടത്തുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ തിക്ക് നെസ്സ് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾ ഒരു ഊഹം നടത്തണം അതെല്ലാം നമ്മൾ കാണും അതുകൊണ്ടാണ് ലളിതമായ ടെൻഷൻ ടെസ്റ്റിനെ അപേക്ഷിച്ച് ഈ ടെസ്റ്റ് കൂടുതൽ വെല്ലുവിളി നിറഞ്ഞത് വ്യക്തമായും ഇത് ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫ്രാക്ചർ ടഫ്നെസ്സിനെ വിലയിരുത്താൻ ആളുകൾ ഇത്രയും പണം നിക്ഷേപിക്കില്ല കൂടാതെ ഞാൻ സൂചിപ്പിച്ചതും ഗ്രാഫിന്റെ രൂപത്തിൽ കാണിച്ചതുമായതുപോലെ എക്സ്പിരിമെന്റിൽ പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻസ് നേരിടേണ്ടിവരുമ്പോൾ മാത്രമേ ഫ്രാക്ചർ ടഫ്നെസ്സ് ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടി ആകുകയുള്ളൂ അതിനാൽ നിങ്ങൾ ഇത് വിവിധ മാർഗങ്ങളിലൂടെ നേടണം ക്രാക്ക് ടിപ്പിൽ ഒരു പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ നൽകുന്നതിന് സ്പെസിമെൻ തിക്ക് നെസ്സ് എങ്ങനെ വിലയിരുത്താമെന്ന് നമ്മൾ പരിശോധിച്ചു ഇത് സ്പെസിമെൻ തിക്ക് നെസ്സിൽ ഏറ്റവും കുറഞ്ഞ ആവശ്യകത ചുമത്തുന്നു ഒരു പുതിയ മെറ്റീരിയലിനായി അത് ട്രയലും ഇറർറും Trial Error ഉപയോഗിച്ച് നേടേണ്ടതുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വശമാണ് അതിനർത്ഥം നിങ്ങൾ പൂർണ്ണ പരിശോധന നടത്തുന്നു എന്നാണ് സ്ക്രീനിംഗ് ക്രൈറ്റീരിയ തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾ സ്ക്രാപ്പ് ചെയ്യണം ഫ്രാക്ചർ ടഫ്നെസ്സ് ടെസ്റ്റിംഗ് കൂടുതൽ ചെലവേറിയതാണ് എന്ന് ഓർമ്മിക്കുക ഒരു ടെൻഷൻ ടെസ്റ്റ് വളരെ ലളിതമാണ് ഒരു ടെൻഷൻ ടെസ്റ്റിന്റെ കാര്യത്തിൽ സ്പെസിമെൻ തയ്യാറാക്കൽ പോലും വളരെ ലളിതമാണ് ഫ്രാക്ചർ ടഫ്നെസ്സ് ടെസ്റ്റിംഗിൽ സ്പെസിമെൻ പ്രീപ്പറേഷനിൽ വേറെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിവരും സങ്കൽപ്പിക്കുക പരിശോധനയുടെ അവസാനം പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് സ്ക്രാപ്പ് ചെയ്യണം അത് വളരെ ചെലവേറിയതാണ് ആളുകൾ ഈ സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തുവെന്ന് നമുക്ക് കാണാം മറ്റൊരു ആവശ്യകത ടെസ്റ്റ് സാധുതയുള്ളതാകണം എങ്കിൽ സ്വാഭാവിക ക്രാക്ക് ഉപയോഗിച്ച് പരിശോധന നടത്തണം നോക്കൂ ഇത് വളരെ ആവശ്യമുള്ളതാണ് നോക്കൂ നിങ്ങൾക്ക് ഒരു സ്പെസിമെൻനിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക രീതിയിൽ സ്വാഭാവിക ക്രാക്ക് ഉണ്ടാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ലളിതമായ ഒരു ടാസ്ക് അല്ല നിങ്ങൾക്ക് ഒരു യഥാർത്ഥ സ്ട്രക്ച്ചർ ഉണ്ട് നിരവധി കാരണങ്ങളാൽ ക്രാക്കുകൾ വികസിച്ചു എന്നാൽ ആ സ്ട്രക്ച്ചർ എങ്ങനെ പരാജയപ്പെടും എന്ന് വിശകലനം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നത് വ്യത്യസ്ത പ്രശ്നമാണ് ടെസ്റ്റിംഗ് വീക്ഷണകോണിൽ നിന്ന് നിങ്ങൾ പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ നിലനിർത്തണം അതിന് നിങ്ങൾക്ക് സ്വാഭാവിക ക്രാക്ക് ഉണ്ടായിരിക്കണം നിങ്ങൾ ഒരു സ്ലിറ്റ് ഇടുക യും തുടർന്ന്നിങ്ങൾക്ക് പരിശോധന നടത്താൻ കഴിയുമെന്ന് പറയുക അത്ര എളുപ്പം അല്ല നിങ്ങൾ ഒരു സ്വാഭാവിക ക്രാക്ക് വികസിപ്പിക്കണം അത് കഠിനമായ ഒരു ജോലിയാണ് ഫാറ്റീഗ്ഗ് ലോഡിംഗ് വഴി സ്വാഭാവിക ക്രാക്ക് ലഭിക്കാൻ പ്രത്യേക നോച്ചുകൾ ശുപാർശ ചെയ്യുക ആണ് വേണ്ടത് ഫാറ്റീഗ്ഗ് ലോഡിംഗ് എങ്ങനെ ചെയ്യണമെന്നതിനും നിയന്ത്രണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ അമിതമായ പ്ലാസ്റ്റിക് സോൺ വികസിപ്പിക്കുന്ന രീതിയിൽ ലോഡിംഗ് ചെയ്യരുത് നിങ്ങൾ ഉചിതമായ ശ്രേണി മാത്രമേ തിരഞ്ഞെടുക്കാവൂ അതുവഴി നിങ്ങൾക്ക് സ്വാഭാവിക ക്രാക്ക് ലഭിക്കും പ്രത്യേക നോച്ചുകൾ ഉപയോഗിച്ച് ക്രാക്ക് പ്രചരിപ്പിക്കുന്ന പ്ലെയിൻ നിങ്ങൾക്ക് നിയന്ത്രിക്കാനാകുമെന്ന് നമ്മൾ കണ്ടു പരിശോധനയുടെ ആവശ്യകത കൂടാതെ പരിശോധനയുടെ ആവശ്യകതകൾ എന്തൊക്കെയാണ് സ്പെസിമെന്റെ അളവുകളിൽ നിങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ട് നമ്മൾ പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ പാലിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്കറിയാം അത് തിക്ക് നെസ്സ് എന്തായിരിക്കണം എന്ന് ചുമത്താൻ പോകുന്നു നിങ്ങൾ തിക്ക് നെസ്സ് തീരുമാനിച്ചുകഴിഞ്ഞാൽ മറ്റെല്ലാ പാരാമീറ്ററുകളും തീരുമാനിക്കാം ഞാൻ ഇതിനകം സൂചിപ്പിച്ചിരുന്നു നിങ്ങൾക്ക് ഒരു സ്വാഭാവിക ക്രാക്ക് ആവശ്യമാണ് ഫാറ്റീഗ്ഗ് ലോഡിങിലൂടെ ഇത് ചെയ്യേണ്ടതുണ്ട് ഈ ഫാറ്റീഗ്ഗ് ലോഡിംഗ് എങ്ങനെ പ്രയോഗിക്കും എന്നതിന് നിങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും അതിനാൽ നിങ്ങൾക്ക് ഫാറ്റീഗ്ഗ് പ്രീ ക്രാക്കിംഗ് നിയന്ത്രണങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരു സ്വാഭാവിക ക്രാക്ക് ഉള്ള സ്പെസിമെൻ ലഭിച്ചു കഴിഞ്ഞാൽ ഏത് ലോഡിംഗ് നിരക്കിലാണ് നിങ്ങൾ ടെസ്റ്റ് നടത്തുക അതിന് ശുപാർശകളുണ്ട് കാരണം നിങ്ങൾ ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വാഭാവിക ക്രാക്ക് ഉള്ള സ്പെസിമെൻ ഉണ്ട് തുടർന്ന് മോണോടോണിക് ലോഡ് പ്രയോഗിക്കുക സ്പെസിമെൻ തകരുന്നതുവരെ നിങ്ങൾ ലോഡിംഗ് ചെയ്യുക അതിനാൽ ഒരു ഫ്രാക്ചർ ടഫ്നെസ്സ് ടെസ്റ്റിംഗിനുശേഷം ഒരു മോണോടോണിക് ലോഡിംഗ് ഉപയോഗിച്ച് സ്പെസിമെൻ പൂർണ്ണമായും തകർക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് ലോഡിങ് റേറ്റിന് ശുപാർശകൾ ഉണ്ട് ഇതിനെല്ലാം ശേഷം നിങ്ങൾ ഫാറ്റീഗ്ഗ് പ്രീ ക്രാക്കിന്റെ പോസ്റ്റ്മോർട്ടം നടത്തണം കാരണം ടെസ്റ്റ് സ്വീകരിക്കാൻ പോകുന്നത് ക്രാക്ക് ഉണ്ടോ എന്ന് തീരുമാനിക്കുന്ന രീതിയിലാണ് അതിനാൽ ഈ ഘട്ടത്തിൽ ക്രാക്ക് ശരിയല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് സ്ക്രാപ്പ് ചെയ്യണം അതിനു ശേഷം നിങ്ങൾ ടെസ്റ്റ് വീണ്ടും ചെയ്യണം നിങ്ങൾക്ക് അതിനുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട് നിങ്ങൾക്ക് ASTM E399 06 ഉണ്ട് 06 സൂചിപ്പിക്കുന്നത് അംഗീകരിച്ച അല്ലെങ്കിൽ മുൻകൂട്ടി അംഗീകരിച്ച വർഷത്തെയാണ് കാരണം അതിന് ഒരു ജീവനുണ്ട് 90 കളിൽ ആണ് ഇത് വികസിപ്പിച്ചെടുത്തത് നിരവധി പരിഷ്ക്കരണങ്ങൾ ഇതിനുള്ളിൽ ചേർത്തിട്ടുണ്ട് ഏറ്റവും പുതിയത് 2006 ലാണ് ഇതാണ് മെറ്റാലിക് മെറ്റീരിയലുകളുടെ കെ ആളുകൾ ചില പരിഷ്കാരങ്ങൾ വരുത്തുന്ന ഒരു പരിശീലനവും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു 2007 ൽ റിപ്പോർട്ട് ചെയ്ത B645 എന്ന ASTM സ്റ്റാൻഡേർഡ് പ്രാക്ടീസായ അലുമിനിയം അലോയ്കൾ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് ഈ വ്യവസ്ഥകൾ എങ്ങനെ പാലിക്കുന്നു എന്നതിന്റെ ഒരു ഫ്ലേവർ മാത്രമേ ഞാൻ നൽകൂ ഞാൻ ഇതിനകം സൂചിപ്പിച്ചതുപോലെ കോഡുകൾ തുടർച്ചയായി മെച്ചപ്പെടുത്തുകയും പുതിയ കോഡുകൾ പഴയവയെ മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുന്നു അതിനാൽ നിലവിലെ പരിശീലനത്തിനായി E399 B645 കോഡുകളും അവയുടെ പുനരവലോകനങ്ങളും നോക്കുക എന്നതാണ് ഉപദേശം അതിനാൽ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളുടെ ചില വശങ്ങൾ കാലഹരണപ്പെട്ടേക്കാം അല്ലെങ്കിൽ നിലനിന്നേക്കാം അത് കാലത്തിന് മാത്രമേ പറയാനാകൂ ക്യാൻഡിഡേറ്റ് ഫ്രാക്ചർ ടഫ്നെസ് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ഫ്രാക്ചർ ടഫ്നെസ് എന്ന മറ്റൊരു കോൺസെപ്പ്റ്റ് കൂടിയുണ്ട് അതിനാൽ അതിനർത്ഥം ഞാൻ ഒരു ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗ് നടത്തുമ്പോൾ ടെസ്റ്റിന്റെ അവസാനം എനിക്ക് ലഭിക്കുന്നതെല്ലാം KQ എന്ന് ലേബൽ ചെയ്യപ്പെടും അതിനെ കാൻഡിഡേറ്റ് ഫ്രാക്ചർ ടഫ്നെസ് എന്ന് വിളിക്കുന്നു ഈ കാൻഡിഡേറ്റ് ഫ്രാക്ചർ ടഫ്നെസ് ഫ്രാക്ചർ ടഫ്നെസ് ആയി യോഗ്യത നേടാനാകുമോ അതിനായി പരീക്ഷണത്തിന്റെ അവസാനത്തിൽ നിങ്ങളുടെ സ്പെസിമെനിന്റെ പരിശോധനയും പോസ്റ്റ്മോർട്ടവും നടത്തി ഏത് രീതിയിലും നിങ്ങൾ സ്ക്രീനിംഗ് നടത്തണം ഇത് എല്ലാ സ്ക്രീനിംഗ് ക്രൈറ്റീരിയകളും തൃപ്തിപ്പെടുത്തുന്നുവെങ്കിൽ KQ എന്നതിനെ KIC ആയി എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ ടെസ്റ്റ് റിജക്ക്റ്റ് ചെയ്തിട്ട്വീണ്ടും ചെയ്യണം ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ് E399 പ്രവർത്തിക്കുന്നത് ഇതാണ് സംഗ്രഹിച്ചിരിക്കുന്നത് ടെസ്റ്റുകളുടെ എല്ലാ ആവശ്യകതകളും നിറവേറ്റുമ്പോൾ മാത്രമേ അത് KIC ആയി സ്വീകരിക്കുകയുള്ളൂ എക്സ്പിരിമെന്റൽ പാരാമീറ്ററുകളുടെ പോസ്റ്റ്മോർട്ടം ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിന് സവിശേഷമാണ് ഒരു ടെൻഷൻ ടെസ്റ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതില്ല നിങ്ങൾ ഒരു സ്പെസിമെൻ എടുക്കുക ബ്രേക്ക് ചെയ്യുക യിൽഡ് സ്ട്രെങ്ത് എന്തെന്ന് കണ്ടെത്തുക ഇത് വളരെ നന്നായി സ്ട്രീം ലൈൻഡ് ആണ് അത് അത്രയും ലളിതമാണ് അതും ചെലവേറിയതാണ് ഫ്രാക്ചർ ടഫ്നെസ്സ് ടെസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ അത് കൂടുതൽ ചെലവേറിയതാണ് ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിനായി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സ്പെസിമെൻസ് എന്തൊക്കെയാണ് നോക്കൂ പ്രാരംഭഘട്ടത്തിൽ അവർ CCT സ്പെസിമെൻ ആണ് ഉപയോഗിച്ചതെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾനിങ്ങൾക്ക്വ്യത്യസ്ത സ്പെസിമെനുകൾ റിപ്പോർട്ടു ചെയ്തിട്ടുണ്ട് എന്നാൽ അടിസ്ഥാന തത്വശാസ്ത്രം എന്തെന്നാൽ പരീക്ഷണാത്മക പാരാമീറ്ററുകളിൽ നിന്ന് SIF ന്റെ മൂല്യം വിലയിരുത്തുന്നതിന് കൃത്യമായ വിശകലന പദപ്രയോഗങ്ങൾ ഉള്ള മാതൃകകൾ തിരഞ്ഞെടുക്കുക കാരണം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ടെസ്റ്റ് സ്പെസിമെനിൽ ഫ്രാക്ചർ ഉണ്ടാകുന്ന ലോഡ് നമ്മൾ കണ്ടെത്താൻ പോകുന്നു ലോഡിന്റെ ആ മൂല്യത്തിനായി തന്നിരിക്കുന്ന സ്പെസിമെന്റെ ജിയോമെട്രിക്കായി സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം ആ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിനെ നിങ്ങൾ KIC എന്ന് വിളിക്കും അത് ഫ്രാക്ചർ ടഫ്നെസ് അതിനാൽ നിങ്ങൾക്ക് ആക്ക്യൂറേറ്റ് അനലിറ്റിക്കൽ എക്സ്പ്രെഷൻ ആവശ്യമാണ് അതിനാൽ ആളുകൾ ചെയ്തത് ആളുകൾ ബൌണ്ടറി കോളോക്കേഷൻ ടൈപ്പ് സമീപനമാണ് നടത്തിയത് ഈ സ്റ്റാൻഡേർഡ് ജിയോമെട്രികളെ ന്യൂമെറിക്കലി സോൾവ് ചെയ്യുകയും ഒരു ഇറർ ബാൻഡിനുള്ളിലെ K യുടെ മൂല്യം എന്താണ് എന്ന് കണ്ടെത്തുന്നതിന് ഉള്ള എംപിരിക്കൽ റിലേഷനിൽ എത്തിച്ചേരുകയും ചെയ്തു അതെല്ലാം നമ്മൾ കാണും നിങ്ങൾക്ക് കോംപാക്റ്റ് ടെൻഷൻ സ്പെസിമെൻ ഉണ്ട് അതിനെ CT സ്പെസിമെൻ എന്നറിയപ്പെടുന്നു നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് കാണുകയും ഇവയെ പിന്നീട് എങ്ങനെ പ്രതിനിധീകരിക്കും എന്ന് പറയുകയും ചെയ്യും നിങ്ങൾക്ക് ഒരു 3 പോയിന്റ് ബെൻന്റ സ്പെസിമെൻ ഉണ്ട് ഇത് ഒരു TPB സ്പെസിമെൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു C സ്പെസിമെനും ഡിസ്ക് ആകൃതിയിലുള്ള കോംപാക്റ്റ് ടെൻഷൻ സ്പെസിമെനും ഉണ്ട് ഈ ഓരോ സ്പെസിമെനും ഒരു പ്രത്യേക തരം ആപ്ലിക്കേഷനായി ഉപയോഗിക്കുന്നു പ്ലേറ്റ് സ്റ്റോക്കിന് ഇത് ഉപയോഗപ്രദമാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് സ്റ്റോക്ക് ഉള്ളപ്പോൾ CT സ്പെസിമെൻ എടുക്കുക നിങ്ങൾക്ക് ഒരു പൈപ്പ് ഉള്ളപ്പോൾ ഒരു C സ്പെസിമെൻ എടുക്കുക നിങ്ങൾക്ക് ഒരു റൌണ്ട് സ്റ്റോക്ക് ഉള്ളപ്പോൾ ഡിസ്ക് ആകൃതിയിലുള്ള കോംപാക്റ്റ് ടെൻഷൻ സ്പെസിമെൻ എടുക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രത്യേക ആപ്ലിക്കേഷനുകൾക്കായി മിനിയേച്ചർ കോംപാക്റ്റ് ടെൻഷൻ സ്പെസിമെനുകളും റിപ്പോർട്ടു ചെയ്തിട്ടുണ്ട് നോക്കൂ ഓർക്കുക ഈ എക്സ്ഓറ്റിക്ക് അലോയ്കളിൽ ചിലത് വളരെ ചെലവേറിയതാണ് നിങ്ങൾക്ക് ഒരു വലിയ സ്പെസിമെൻ ഉണ്ടാകരുത് നമുക്ക് സ്പെസിമെൻ സൈസ് നിയന്ത്രണങ്ങൾ നോക്കാം ആളുകൾ വളരെ ചെറിയ സ്പെസിമെനുകളിൽ എത്തിയിട്ടുണ്ട് വാസ്തവത്തിൽ കഴിയുമെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ സ്പെസിമെനുകൾ കൊണ്ടുവന്ന് അത് എങ്ങനെയുണ്ടെന്ന് കാണിച്ചുതരാം കോംപാക്റ്റ് ടെൻഷൻ സ്പെസിമെൻ ഈ ചിത്രം ഒരു കോംപാക്റ്റ് ടെൻഷൻ സ്പെസിമെൻ എങ്ങനെ ആകുന്നു എന്ന് കാണിക്കുന്നു ഇതിന്റെ 2D സ്കെച്ച് നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയും നിങ്ങൾക്ക് ഇവിടെ തിക്ക് നെസ്സ് ഡബ്ല്യൂ ബൈ 2 ആയി നൽകിയിരിക്കുന്നു കൂടാതെ ക്രാക്ക് എങ്ങനെ അളക്കുന്നുവെന്ന് നോക്കുകയാണെങ്കിൽ അത് ലോഡ് ആപ്ലിക്കേഷൻ പോയിന്റ് മുതൽ ഫറ്റിഗ്ഗ് ക്രാക്കിന്റെ അവസാനം വരെ അളക്കുന്നു നിങ്ങൾ എല്ലാ ഫ്രാക്ചർ ടഫ്നെസ്സ് സ്പെസിമെനുകളും നോക്കിയാൽ നിങ്ങൾക്ക് ക്രാക്കിന്റെ നീളം 0 5 ഡബ്ല്യൂ ആയിരിക്കും നമ്മൾ അതിനെ ഒരു നിബന്ധനയായി കാണും അതിനാൽ നിങ്ങൾക്ക് a ബൈ w അനുപാതം 0 5 ആണ് വേണ്ടത് ക്രാക്കിന് ആവശ്യത്തിന് നീളമുണ്ട് നിങ്ങൾക്ക് വളരെ കർശനമായ നോമൻക്ലേച്ചർ ഉണ്ട് ദ്വാരങ്ങളുടെ ദൂരം എന്തായിരിക്കണം ഡയൽ എന്തായിരിക്കണം എന്താണ് റ്റോളറൻസ് അവ ഇവിടെ കാണിച്ചിട്ടില്ല നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് എടുക്കുകയാണെങ്കിൽ ഈ ഓരോ ഡൈമെൻഷനും ഉള്ള റ്റോളറൻസ് എന്തായിരിക്കും എന്ന് അത് നൽകും പ്രധാന കാര്യം നിങ്ങൾക്കറിയാത്ത ഒരു വഴി എന്താണ് തന്നിരിക്കുന്ന മെറ്റീരിയലിന് B യുടെ മൂല്യം ഇവിടെയാണ് വെല്ലുവിളി നിലനിൽക്കുന്നത് അതിനാൽ നിങ്ങൾ ഒരു ബുദ്ധിപരമായ ഗസ്സ് വർക്ക് നടത്തുകയും തുടർന്ന് നിങ്ങളുടെ സ്പെസിമെൻ തയ്യാറാക്കുകയും വേണം പ്ലെയിൻ സ്ട്രെയിൻ കണ്ടിഷൻ ഉറപ്പാക്കാൻ എനിക്ക് കുറഞ്ഞ സ്പെസിമെൻ തിക്ക് നെസ്സ് ഉണ്ടായിരിക്കണം എന്റെ ഗസ്സ് വർക്ക് തെറ്റാണെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ആവർത്തിക്കണം ഇതിനുള്ള എക്സ്പ്രെഷനുകളും നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ കുറിപ്പുകളിൽ ഇതിനെക്കുറിച്ച് നോട്ട് ചെയ്യുക KI എന്നത് P ഡിവൈഡഡ് ബൈ B w പവർ ഹാഫ് ഗുണം 2 പ്ലസ് a ബൈ w ഗുണം ബൈ 0 886 പ്ലസ് 4 64 a ബൈ w മൈനസ് 13 32 a ബൈ w ഹോൾ സ്ക്വായർഡ് പ്ലസ് 14 72 a ബൈ w ഹോൾ ക്യൂബ് മൈനസ് 5 6 a ബൈ w ഹോൾ പവർ 4 ഡിവൈഡഡ് ബൈ 1 മൈനസ് a ബൈ w ഹോൾ പവർ 3 ബൈ 2 കൂടാതെ സ്റ്റാൻഡേർഡ് നൽകുന്ന ആക്യൂറസി എന്താണ് KI യുടെ മൂല്യം 0 5 ശതമാനം വരെ ആക്യൂറേറ്റ് ആണ് ഇത് 0 2 ന്റെ a ബൈ w അനുപാതത്തിനും a ബൈ w നും 1നും 0 2 1 എന്നിവയ്ക്കിടയിലുള്ള a ബൈ w നും സാധുതയുള്ളതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് a ബൈ w ഏകദേശം 0 5 ആയിരിക്കും ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിന്റെ കാര്യത്തിൽ എല്ലാ സ്പെസിമെനുകളും പരാമർശിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ ഓർമിക്കേണ്ടതുണ്ട് ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷന്റെ കാര്യത്തിൽ റേഡിയേഷന്റെ എക്സ്പോഷർ കാരണം മെറ്റീരിയൽ ഡിഗ്രേഡ് ആകുന്നുവെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു അതിനാൽ അവർ റിയാക്ടറിനുള്ളിൽ ഫ്രാക്ചർ ടഫ്നെസ്സ് സ്പെസിമെനുകൾ സ്റ്റോക്ക് ചെയ്യുകയും പീരിയോഡിക്കൽ ആയി പുറത്തെടുക്കുകയും ഫ്രാക്ചർ ടഫ്നെസ്സ് കണ്ടെത്തുകയും ചെയ്യുന്നു എന്താന്നെന്ന് സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ടൈമിന്റെ ഫങ്ക്ഷനായി ഫ്രാക്ചർ ടഫ്നെസ്സ് എങ്ങനെ മാറുന്നുവെന്ന് കാണുക ഇതിനായി CT സ്പെസിമെൻ ശുപാർശ ചെയ്യുന്നു കാരണം ഇത് വളരെ കോംപാക്ട് ആണ് അതിനാലാണ് ഇതിനെ കോംപാക്റ്റ് ടെൻഷൻ സ്പെസിമെൻ എന്ന് വിളിക്കുന്നത് ത്രീ പോയിന്റ് ബെൻഡ് സ്പെസിമെൻ അടുത്ത ജനപ്രിയമായി ഉപയോഗിക്കുന്ന സ്പെസിമെൻ ത്രീ പോയിന്റ് ബെൻഡ് സ്പെസിമെൻ ആണ് വാസ്തവത്തിൽഈ സ്പെസിമെൻ മറ്റേതൊരു സ്പെസിമെനുകളെക്കാളും നിർമ്മിക്കാൻ വളരെ എളുപ്പമാണ് ഇത് മാത്രമല്ലത്രീ പോയിന്റ് ബെൻഡ് സ്പെസിമെൻ ലോഡു ചെയ്യുന്നതിനുള്ള ലോഡിംഗ് ഫിക്സ്ച്ചറുകൾ പോലും വളരെ ലളിതമാണ് അതിനാൽ ആ വീക്ഷണകോണിൽ നിന്ന് വളരെ പ്രചാരമുള്ള ഒരു സ്പെസിമെൻ ആണിത് അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ്സ് നിങ്ങൾക്ക് വൈവിധ്യങ്ങൾ നൽകുന്നത് നിങ്ങൾ ഒരു ടു ഡൈമെൻഷണൽ സ്കെച്ച് ഉണ്ടാക്കുക എനിക്ക് ഒരു നല്ല ത്രീ ഡൈമെൻഷണൽ റെപ്രെസെൻറ്റേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇതിനെ ടു ഡൈമെൻഷണൽ സ്കെച്ചായി മാറ്റാൻ കഴിയും സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിനുള്ള എക്സ്പ്രെഷൻ എന്താണ് എന്നും നമുക്ക് കാണാം KI ഈക്വൽ ടു P ഗുണം S ഡിവൈഡഡ് ബൈ B w പവർ 3 ബൈ 2 ഗുണം 3 ഗുണം a ആയി നൽകാം ഇതിനെ 1 99 മൈനസ് a ബൈ w ഗുണം 1 മൈനസ് a ബൈ w ഗുണം 2 15 മൈനസ് 3 93 a ബൈ w പ്ലസ് 2 7 a ബൈ w ഹോൾ സ്ക്വായെർഡ് ഡിവൈഡഡ് ബൈ 2 ഗുണം 1 പ്ലസ് 2 a ബൈ w ഗുണം 1 മൈനസ് a ബൈ w ഹോൾ പവർ 3 ബൈ 2 ആണ് S ന്റെ മൂല്യം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് എവിടെ പരാമർശിച്ചിരിക്കുന്നു സ്പെസിമെന്റെ വീതിയുടെ 4 മടങ്ങിന് S തുല്യമാണ് ഈ ലെങ്ത് S ആയി കണക്കാക്കുന്നു KI യുടെ എക്സ്പ്രഷൻ 0 5 ശതമാനം ആക്ക്യൂറേറ്റ് ആണ് മറ്റ് സ്പെസിമെനുകളും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് നോക്കാം നമുക്ക് രണ്ട് ഇഷ്യൂസും പരിശോധിക്കാം നമ്മൾ ഇതിനകം പരിശോധിച്ച സ്പെസിമെൻ ഡൈമെൻഷനുകളിലെ കൺസ്ട്രൈൻസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് B എന്നത് 2 5 ൽ അഞ്ച് തവണ കൂടുതൽ KIC ഡിവൈഡഡ് ബൈ സിഗ്മ ys ഹോൾ സ്ക്വയെർഡ് ഉണ്ടായിരിക്കണം ഇവയിൽ ചിലത് അടുത്ത ക്ലാസിൽ നമുക്ക് നോക്കാം ഷെവ്റോൺ നോച്ച് എന്റെ താൽപര്യം ഷെവ്റോൺ നോച്ച് എന്താണ് എന്ന് ചർച്ചചെയ്യാനാണ് കാരണം ഫ്രാക്ചർ ടഫ്നെസ്സ് പരിശോധന നടത്താൻ നിങ്ങൾക്ക് ഒരു സ്വാഭാവിക ക്രാക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ക്രാക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്ലെയിനിൽ ആയിരിക്കണം എന്നു നമ്മൾ ആഗ്രഹിക്കുന്നു അത് ഒരു പ്രത്യേക രീതിയിൽ പ്രചരിപ്പിക്കുകയും വേണം ഒരു ഷെവ്റോൺ നോച്ചിൽ ഇത് ഉറപ്പുനൽകിയിരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായ ഉത്തരം നൽകാൻ പോകുന്നില്ല നിങ്ങൾ ഒരു സ്കെച്ച് ഉണ്ടാക്കണം ഡ്രോയിംഗിലെ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നോച്ചിന്റെ ത്രീ ഡൈമെൻഷണൽ റെപ്രെസെൻറ്റേഷൻ എങ്ങനെ കാണപ്പെടും എന്ന് നിങ്ങൾ ദൃശ്യവൽക്കരിക്കണം നിങ്ങൾ ഇതിന്റെ ഒരു സ്കെച്ച് തയ്യാറാക്കുക എനിക്ക് ഇതുപോലുള്ള വരകളുണ്ട് എനിക്ക് ഇതുപോലുള്ള ഒരു വരയുണ്ട് എനിക്ക് ഇതുപോലുള്ള ഒരു വരയുണ്ട് ഇതാണ് സ്ലോട്ട് വിഡ്ത് സ്ലോട്ട് വിഡ്ത് w ബൈ 10 നേക്കാൾ കുറവാണ് എന്ന് നൽകിയിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 1 6 മില്ലിമീറ്ററിൽ കുറയരുത് എന്നാണ് നിർദ്ദേശിക്കുന്നത് ഇവയെല്ലാം നിങ്ങൾ തൃപ്തിപ്പെടുത്തണം നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം സ്ലോട്ട് 0 45 w ലേക്ക് മെഷീൻ ചെയ്തിരിക്കുന്നു ലെങ്ത് എന്താണ് ഇത് കുറഞ്ഞത് 0 05 w വരെ ഫാറ്റിഗ്ഗ് മൂലം നീളും അതിനാൽ നിങ്ങൾക്കുള്ളത് നോച്ചിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ഒരു ഫാറ്റിഗ്ഗ് ക്രാക്ക് ഉണ്ടാകും ഇപ്പോൾ ചോദ്യം ഇതാണ് ഫാറ്റിഗ്ഗ് ക്രാക്ക് പ്ലെയിനും അതിന്റെ ഓറിയന്റേഷനും എങ്ങനെ നിയന്ത്രിക്കണം എന്നതാണ് ഇത് നോച്ചിന്റെ ഡിസൈനെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ ഇതിലൂടെ കടന്നുപോകുന്ന ഒരു പ്ലെയിൻ ഞാൻ എടുക്കുന്നു ഫാറ്റിഗ്ഗ് ക്രാക്ക് ഗ്രോത്തിന്റെ ഉത്ഭവവും പ്ലെയിനും നിയന്ത്രിക്കാൻ ഷെവ്റോൺ നോച്ച് എന്ന ആശയം ഉപയോഗിക്കുന്നു നിങ്ങൾക്കറിയാമോനിങ്ങൾക്ക് നോച്ച് എങ്ങനെയിരിക്കും എന്നതിന് ഒരു സൂചനയുണ്ട് പക്ഷെ ഞാൻ അതിന് മുകളിൽ ഒരു പ്ലെയിൻ ഇടും ഡ്രോയിംഗിനെക്കുറിച്ചുള്ള അറിവിൽ നിന്ന് സ്പെസിമെൻ ഇതുപോലെ മുറിക്കുമ്പോൾ ഷെവ്റോൺ നോച്ചിന്റെ ഐസോമെട്രിക് വ്യൂ എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കുക എന്നതാണ് നിങ്ങളുടെ എക്സ്ർസൈസ് ഇത് ഫോക്കസ് ചെയ്യുന്നത് ക്രാക്കിന്റെ ഉത്ഭവത്തെയും പ്ലെയിനിനെയും നിയന്ത്രിക്കുന്നു എന്നതാണ് ഇത് ഒരു എക്സ്ർസൈസായി ചെയ്തിട്ട് അടുത്ത ക്ലാസിലേക്ക് വരിക അതിനാൽ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് സ്പെസിമെന്റെ തിക്ക് നെസ്സിനു കുറുകയും സ്പെസിമെന്റെ ലെങ്തിലും പ്ലാസ്റ്റിക് സോൺ എങ്ങനെ മാറുന്നു എന്നതാണ് റോസൻഫീൽഡിന്റെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെയും പരീക്ഷണഫലങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ട പ്ലെയിൻ സ്ട്രെയ്നിന്റെ കാര്യത്തിലെ സ്ലിപ്പിംഗ് പ്ലെയിനുകളും പ്ലെയിൻ സ്ട്രെസ്സിന്റെ കാര്യത്തിലെ സ്ലിപ്പിംഗ് പ്ലെയിനുകളും എന്തൊക്കെയാണെന്ന് നമ്മൾ പരിശോധിച്ചു തുടർന്ന് നമ്മൾ ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിലേക്ക് നീങ്ങി നമ്മൾ രണ്ട് സ്പെസിമെൻ ഡൈമെൻഷനുകളും പരിശോധിച്ചു മറ്റ് സ്പെസിമെനുകൾ നമുക്ക് അടുത്ത ക്ലാസിൽ നോക്കാം ഒരു ഷെവ്റോൺ നോച്ചിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ആശയം വിശദീകരിച്ചു ഷെവ്റോൺ നോച്ചിന്റെ ആകൃതി നിങ്ങൾ വരയ്ക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഉണ്ടാക്കാൻ പ്രയാസമാണ് അതിനാൽ ഇത് നിർമ്മിക്കാൻ നിങ്ങൾക്ക് സ്പെഷ്യൽ ടൂളിങ് ആവശ്യമാണ് നന്ദി